കോണിക് സെക്ഷൻസ് V കോണിക് വിഭാഗങ്ങളിൽ റൈറ്റ് സർക്കുലർ കോൺ ഇനെ തിരശ്ചീനമായി സ്ലൈസ് ചെയ്താൽ നമുക്ക് ഒരു വൃത്തം ലഭിക്കുന്നു ചരിച്ചു സ്ലൈസ് ചെയ്താൽ നമുക്ക് ഒരു അണ്ഡവൃത്തം ലഭിക്കുന്നു കൂടാതെ പരാബോള ഹൈപ്പർബോള എന്നിവയും ലഭിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ അണ്ഡവൃത്തം നിർമ്മിക്കുന്നതിനുള്ള രണ്ട് പ്രത്യേക രീതികൾ നമ്മൾ പഠിക്കും ഒന്ന് കോൺസെൻട്രിക് സർക്കിൾ രീതി മറ്റൊന്ന് ഒബ്ലോങ് രീതി കോൺസെൻട്രിക് സർക്കിൾ രീതിയിൽ രണ്ട് കോൺസെൻട്രിക് സർക്കിളുകൾ വരയ്ക്കും അവിടെ നിന്ന് വലിയ അക്ഷത്തെയും ചെറിയ അക്ഷത്തെയും അടിസ്ഥാനമാക്കി ഒരു അണ്ഡവൃത്തം നിർമ്മിക്കേണ്ടതുണ്ട് രണ്ട് വ്യത്യസ്ത ആരങ്ങൾ ഉള്ള രണ്ട് വൃത്തങ്ങൾ കേന്ദ്രീകൃതമായി നമ്മൾ വരയ്ക്കും തുടർന്ന് ഒരു അണ്ഡവൃത്തം നിർമ്മിക്കുന്നതിന് ലൈനുകൾ ചേർക്കും നമുക്ക് അത് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം ഉദാഹരണത്തിന് 70 മില്ലീമീറ്റർ വലിയ അക്ഷവും 40 മില്ലീമീറ്റർ ചെറിയ അക്ഷവും ഉള്ള ഒരു അണ്ഡവൃത്തം വരയ്ക്കുക അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഒരു തിരശ്ചീന രേഖ വരയ്ക്കുക എന്നതാണ് അതിനെ നമ്മൾ വലിയ അക്ഷം എന്ന് വിളിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇത് എബി 70 മില്ലീമീറ്ററും 40 മില്ലീമീറ്ററുള്ള ചെറിയ അക്ഷവുമാണ് കൂടാതെ ഇവ രണ്ടും O ൽ റൈറ്റ് ആംഗിളിൽ പരസ്പരം വിഭജിക്കുന്നു അതിനാൽ നമുക്ക് ഇത് നോക്കാം അതിനാൽ 70 മില്ലീമീറ്റർ അകലമുള്ള ഒരു തിരശ്ചീന രേഖയിൽ നമുക്ക് എബി പോയിന്റുകൾ ഉണ്ട് കൂടാതെ അണ്ഡവൃത്തത്തിന്റെ ചെറിയ അക്ഷം 40 മില്ലീമീറ്ററായിരിക്കണം അതിനർത്ഥം നമ്മൾ ഈ വരികൾ വിപുലീകരിക്കുകയാണെങ്കിൽ അവ വിഭജിക്കപ്പെടരുത് അത് നമ്മൾ വരയ്ക്കേണ്ട ഒരു മാർഗമാണ് ഈ ഭാഗം 40 മില്ലീമീറ്ററായിരിക്കണം കൂടാതെ നമ്മൾ ശ്രദ്ധാപൂർവ്വം കാണുകയാണെങ്കിൽ ഇത് 70 മില്ലീമീറ്റർ ഉള്ള പ്രധാന അക്ഷമാണ് അതിനാൽ ഈ മുഴുവൻ വൃത്തത്തിന്റെയും വ്യാസം 70 മില്ലീമീറ്ററായിരിക്കും ചെറിയ അക്ഷം 40 മില്ലീമീറ്ററാണ് ഒരു വൃത്തം കൂടി വരയ്ക്കുന്നതിലൂടെ നമ്മൾ ഒരു അണ്ഡവൃത്തം നിർമ്മിക്കുന്ന അവസ്ഥയിലായിരിക്കും അതിനാൽ ആദ്യ ഘട്ടത്തിൽ എബി സിഡി എന്നിവ വ്യാസങ്ങളായി ഉപയോഗിച്ച് നമ്മൾ രണ്ട് വൃത്തങ്ങൾ വരയ്ക്കണം അതിനുശേഷം രണ്ട് വൃത്തങ്ങളെയും 12 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക അതിനാൽ ആദ്യം നമുക്ക് ബാഹ്യ വൃത്തം തിരഞ്ഞെടുക്കാം ഈ ബാഹ്യ വൃത്തത്തിന് വ്യാസം 70 മില്ലീമീറ്ററാണ് നാം അതിനെ 12 തുല്യ ഭാഗങ്ങളായി വിഭജിക്കണം ഇതിനെ 12 അല്ലെങ്കിൽ 24 തുല്യ ഭാഗങ്ങളായി വിഭജിക്കാം വലിയ അക്ഷം ബേസ് സർക്കിളിനും ചെറിയ അക്ഷം ബേസ് സർക്കിളിനും ഇത് ചെയ്യേണ്ടതുണ്ട് ഇവിടെ നമ്മൾ 12 ഭാഗങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു അതിനാൽ നമ്മൾ എ യിൽ നിന്ന് ആരംഭിക്കുന്നു അപ്പോൾ നമുക്ക് 1 2 3 4 5 ഉം ആറാമത്തേത് വീണ്ടും ബി ലഭിക്കുന്നു അതിനാൽ ഇത് ആദ്യ ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം നാലാമത് അഞ്ചാമത് ആറാമത് ആകുന്നു ഇവ തുല്യ ഭാഗങ്ങളാണ് ചുവടെയുള്ള ഭാഗത്തും നമ്മൾ ഇത് ചെയ്യണം അതിനാൽ സമമിതി കാരണം നമുക്ക് വീണ്ടും 1 2 3 4 5 6 ലഭിക്കുന്നു മൊത്തത്തിൽ നമ്മൾ 12 ഭാഗങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു നമ്മൾ നൽകുന്ന പേരുകൾ ഇങ്ങനെയാണ് നമ്മൾ A 1 2 3 4 5 എന്നിവയിൽ ആരംഭിച്ച് B 6 7 8 9 10 വീണ്ടും A എന്നിങ്ങനെ പോകുന്നു ഈ തുല്യ വിഭജനം നടത്തുന്നതിലൂടെ ഈ വലിയ അക്ഷം വൃത്തങ്ങളിൽ ഇത്തരം നോർമലുകൾ വരയ്ക്കേണ്ട അവസ്ഥയിലായിരിക്കും നമ്മൾ അത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഈ രേഖകൾ വിപുലീകരിക്കും അതിനാൽ ചെറിയ അക്ഷം ബേസ് വൃത്തത്തെ 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കും ബാഹ്യ പോയിൻറുകൾക്ക് 1 2 3 4 5 എന്നിങ്ങനെയും ആന്തരിക പോയിൻറുകൾക്ക് 1' 2' 3' 4' എന്നിങ്ങനെയും പേരിടാൻ പോകുന്നു ഈ കൺവെൻഷനാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വലിയ അക്ഷത്തിന് നമ്മൾ എ ബി A B എന്നീ അക്ഷരങ്ങളും ചെറിയ അക്ഷത്തിന് സി ഡി C D അക്ഷരങ്ങളും ഉപയോഗിക്കുന്നു ഈ 12 തുല്യ ഭാഗങ്ങളുടെ വിഭജനത്തിനുശേഷം ആദ്യ പോയിന്റിലൂടെ സിഡി ക്ക് സമാന്തരമായി ഒരു രേഖ വരയ്ക്കുന്നു സിഡി ക്ക് സമാന്തരമായി 1 ആണ് ആദ്യ പോയിന്റ് എന്ന് നമുക്കറിയാം സിഡി രേഖ ഇതാണ് രേഖ സിഡി ക്ക് സമാന്തരമായി നമ്മൾ 1 ഇൽ നിന്നും ഒരു രേഖ വരയ്ക്കാൻ പോകുന്നു അതുപോലെ നമ്മൾ 2 ഇൽ നിന്നും വരയ്ക്കണം 3 ഇതിനകം തന്നെ ഉണ്ട് 4 ഇൽ നിന്നും നമ്മൾ രേഖ വരയ്ക്കണം അതുപോലെ 5 6 7 8 9 10 പോയിന്റുകളിൽ നിന്നും നമ്മൾ രേഖകൾ വരയ്ക്കണം അത് ചെയ്തുകഴിഞ്ഞാൽ 1' ഇൽ കൂടി എബി ക്ക് സമാന്തരമായി ഒരു രേഖ വരയ്ക്കുക ഈ പോയിന്റ് 1' ഉം ഇത് AB രേഖയുമാണ് അതിനു സമാന്തരമായി നമ്മൾ ഒരു രേഖ വരയ്ക്കും അതുപോലെ തന്നെ 2' 3' 4' 5' എന്നീ ഇന്റർസെക്റ്റിങ് പോയിന്റുകളിൽ നിന്നും നമ്മൾ രേഖകൾ വരയ്ക്കുന്നു നമ്മൾ അത് ചെയ്തുകഴിഞ്ഞാൽ ആന്തരിക ഇന്റർസെക്റ്റിങ് പോയിന്റുകളിൽ നിന്നും ആ ബാഹ്യ വൃത്തത്തിലേക്ക് അകലെയുള്ള ഈ വിഭജന പോയിൻറുകൾ നമുക്ക് ലഭിക്കും അതിനാൽ ഈ പോയിന്റുകളെ നമുക്ക് P1 P2 P3 എന്ന് നാമകരണം ചെയ്യാം ഇത് പി 3 ആണ് ഇത് സി ആണ് പിന്നെ നമുക്ക് പി 4 പി 5 ബി തുടങ്ങിയവയുണ്ട് ഈ പോയിന്റുകൾ ലഭിച്ചുകഴിഞ്ഞാൽ അണ്ഡവൃത്തത്തിന്റെ മുകൾഭാഗം ലഭിക്കുന്നതിന് നമുക്ക് അവയെ ചേർക്കാം അതിനാൽ നമുക്ക് അത് പേജിൽ ചെയ്യാം 70 മില്ലീമീറ്റർ ദൈർഖ്യം വലിയ അക്ഷം ഉള്ള അണ്ഡവൃത്തമുണ്ട് അതിനാൽ നമുക്ക് 70 മില്ലീമീറ്റർ രേഖ വരയ്ക്കാം നമ്മൾ അവിടെ ആദ്യത്തെ പോയിന്റ് അടയാളപ്പെടുത്തുന്നു ഇതാണ് വലിയ അക്ഷം അതിനാൽ ബൈസെക്ടർ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കേന്ദ്രം തിരിച്ചറിയാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് 35 യൂണിറ്റുകൾ അടയാളപ്പെടുത്തണം അത് ചെയ്തുകഴിഞ്ഞാൽ രണ്ട് പോയിന്റുകളിലൂടെയും കടന്നുപോകുന്ന ഒരു വൃത്തം നമ്മൾ നിർമ്മിക്കും നമുക്ക് അവയ്ക്ക് പേര് നൽകാം ആദ്യ പോയിന്റ് എ രണ്ടാമത്തെ പോയിന്റ് ബി നമുക്ക് ഈ കേന്ദ്രത്തെ ഒ എന്ന് വിളിക്കാം നമുക്ക് ഒരു ലംബ രേഖ വരയ്ക്കണം നമുക്ക് ഒരു ഡ്രാഫ്റ്റർ ഉണ്ടെങ്കിൽ ഇത് താരതമ്യേന എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ ഈ സെറ്റ് സ്കെയിലുകൾ ഉപയോഗിക്കുകയും ഈ രേഖ വിപുലീകരിക്കുകയും ചെയ്യണം അങ്ങനെ നമുക്ക് കേന്ദ്രം ലഭിക്കും അതിനുശേഷം നമ്മൾ 40 മില്ലീമീറ്റർ വ്യാസമുള്ള വൃത്തം വരയ്ക്കണം അതായത് നമ്മൾ 20 മില്ലിമീറ്റർ ആരമായി എടുക്കണം ഇത് 20 മില്ലീമീറ്ററാണ് അതിനാൽ ഇവിടെ നിന്ന് 20 മില്ലീമീറ്റർ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുത്ത് ഒരു വൃത്തം വരയ്ക്കുക അതിനുശേഷം നമ്മൾ അത് വിഭജിക്കണം അതിനാൽ ഈ പോയിന്റുകളെ സി ഡി C D എന്ന് നാമകരണം ചെയ്യാം ഇത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഇത് 12 തുല്യ ഭാഗങ്ങളായി വിഭജിക്കണം ഈ ചിത്രത്തിലെ ആദ്യ ഭാഗം രണ്ടാം മൂന്നാം ഭാഗങ്ങൾ പോലെ നമുക്ക് കണക്കാക്കാം അതിനാൽ മൂന്നാം ഭാഗം അർത്ഥമാക്കുന്നത് നമുക്ക് 30 ഡിഗ്രി ഉണ്ട് എന്നാണ് അതുപോലെ 60 ഡിഗ്രി 90 ഡിഗ്രി എന്നിവ ലഭിക്കും നമുക്ക് ഈ രേഖകൾ ചേർക്കാം അതുപോലെ ഈ പോയിന്ററുകൾ ചേർക്കാം അതുപോലെ ഈ വശത്തും നമ്മൾ 60 ഡിഗ്രിയും ഈ ഭാഗത്ത് 30 ഡിഗ്രിയും അടയാളപ്പെടുത്തുന്നു ഇതിലൂടെ നമുക്ക് ചേർക്കാം അതിനാൽ നമ്മൾ 12 ഭാഗങ്ങൾ നിർമ്മിക്കുന്നു ഈ പോയിന്റുകളെ 1 2 3 4 5 6 7 8 9 10 പോയിന്റുകളായി ലേബൽ ചെയ്യാം അതുപോലെ 1 ' 2' 3 ' അടുത്തത് സി' C' എന്നിട്ട് 4 ' 5' 6 ' 7' 8 ' 9 10' എന്നിങ്ങനെ ഉള്ളിലെ പോയിന്റുകൾക്ക് പേര് നൽകും ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് 1 വഴി സിഡി ക്ക് സമാന്തരമായി ഒരു രേഖ വരയ്ക്കുക എന്നതാണ് അതിനാൽ 1 വഴി സിഡി ക്ക് സമാന്തരമായി നമ്മൾ ഒരു രേഖ വരയ്ക്കുന്നു നമുക്ക് ഒരു റൂളർ സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആ രീതിയിൽ വരയ്ക്കാമായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്കെയിൽ ഉപയോഗിക്കുക നമുക്ക് ഈ 90 ഡിഗ്രി രേഖയുണ്ട് കാരണം അവ വിഭജിക്കുന്നു അതിനാൽ സ്കെയിൽ ശ്രദ്ധാപൂർവ്വം ക്രമീകരിച്ച് ഒരു സമാന്തര രേഖ വരയ്ക്കുക അതുപോലെ 2 ൽ നിന്ന് ഒരു സമാന്തര രേഖ വരയ്ക്കുക 3 ൽ ഇതിനകം ഒരു രേഖയുണ്ട് 4 ൽ നിന്ന് ഒരു രേഖ വരയ്ക്കുക 5 ൽ നിന്ന് നമുക്ക് ആ രേഖ വരയ്ക്കണം അതിനാൽ 5 ൽ നിന്ന് അത് ചെയ്യാം അങ്ങനെ നമ്മൾ ലംബ രേഖകൾ വരയ്ക്കുന്നു ഇപ്പോൾ 1' ഇൽ നിന്ന് നമ്മൾ തിരശ്ചീന രേഖകൾ വരയ്ക്കണം 1 ഇൽ ഇത് ഗ്രിഡ് ഉപയോഗിച്ച് മാപ്പുചെയ്ത തിരശ്ചീന രേഖയാണ് അതിനാൽ നമുക്ക് ഈ പോയിന്റ് P1 എന്ന് ലേബൽ ചെയ്യാം അതുപോലെ 2 ൽ നിന്ന് നമ്മൾ ഒരു തിരശ്ചീന രേഖ വരയ്ക്കണം ഈ ഘട്ടത്തിൽ ഇത് കൂടുതലോ കുറവോ വിഭജിക്കും അതുപോലെ 3 and 4 ൽ നിന്നും ഈ പോയിന്റുകളെ വിഭജിക്കുക 5' ഇൽ ഇത് കൃത്യമായി ഗ്രിഡ് മാപ്പിൽ ഉണ്ട് അതിനാൽ അത് ബന്ധിപ്പിക്കുക അത് ചെയ്തുകഴിഞ്ഞാൽ അവയെ P2 എന്ന് ലേബൽ ചെയ്യുക പി 3 ഇതിനകം ഉണ്ട് ഇതാണ് പി 4 പി 5 P4 P5 പോയിന്റുകൾ ഇപ്പോൾ എ പി 2 സി 3 പി 4 പി 5 ബി A P2 C3 P4 P5 B എന്നിവയിലൂടെ കടന്നുപോകുന്ന ഒരു ഫ്രീഹാൻഡ് സ്കെച്ച് വരയ്ക്കുക നമുക്ക് ഫ്രഞ്ച് കർവുകൾ ഉണ്ടെങ്കിൽ സി പി4 പി5 ബി C P4 P5 B എന്നിവയിലൂടെ കടന്നുപോകുന്ന ഒരു രേഖ സുഗമമായി നിർമ്മിക്കാൻ കഴിയും താഴത്തെ വരികളും നമുക്ക് നിർമ്മിക്കാൻ കഴിയും നമുക്ക് അവ നിർമ്മിക്കാം 1 10 പോയിൻറുകൾ നമ്മൾനീട്ടേണ്ട അതേ വരിയിലാണ് അതുപോലെ 2 9 പോയിന്റുകൾ ഒരേ വരിയിലാണ് ഉള്ളത് 9 7 പോയിന്റുകൾ തിരശ്ചീന തലത്തിൽ വിപുലീകരിക്കുക അതിനാൽ അത് വിഭജിക്കുന്നിടത്തെല്ലാം ആ പോയിന്റുകൾ കണ്ടെത്തുക ഈ രേഖകളും വിപുലീകരിക്കാവുന്നവയാണ് ഇത് മറ്റൊരു പോയിന്റാണ് അതിനാൽ നമുക്ക് ഇതിന് പേര് നൽകാം ഈ പോയിന്റ് 5 ഉം വിപുലീകരിക്കുക നമുക്ക് കൂടുതൽ പോയിന്റുകൾ ഉണ്ടെങ്കിൽ കർവ് മനോഹരവും മിനുസമാർന്നതുമായി തോന്നുന്നു അതിനാൽ നമുക്ക് ഫ്രീഹാൻഡ് ഉപയോഗിച്ച് ചേർക്കാം ഇതാണ് നമ്മൾ നിർമിക്കാൻ ഉപയോഗിക്കുന്ന രീതി നമുക്ക് 24 പോയിന്റുകളോ ഒരുപക്ഷേ 48 പോയിന്റുകളോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മികച്ച ചിത്രം ലഭിക്കും ഇതൊരു അണ്ഡവൃത്തമാണ് കോൺസെൻട്രിക് സർക്കിൾ രീതി വഴിയാണിത് ലഭിക്കുന്നത് വലിയ അക്ഷവും ചെറിയ അക്ഷവും നമുക്കറിയാമെങ്കിൽ ഒരാൾക്ക് ഇത് നിർമ്മിക്കാൻ കഴിയും അതിനാൽ നമ്മൾ തിരശ്ചീനമായ അണ്ഡവൃത്തം വരച്ചിട്ടുണ്ട് ലംബമായ അണ്ഡവൃത്തം നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വലിയ അക്ഷം ലംബമായി വിന്യസിക്കപ്പെടുന്നു അതിനർത്ഥം നമ്മൾ അതേ നടപടിക്രമങ്ങൾ തന്നെ ചെയ്യണം ഈ ഒരു രേഖ താഴോട്ട് വരയ്ക്കുന്നതിനു പകരം തിരശ്ചീന അക്ഷത്തിലേക്ക് ഈ ഒരു രേഖ മുഴുവൻ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നു ഇത് സമമിതി പോലെയാണ് ഇത് ഇത്തരത്തിലുള്ള വൃത്ത മായി മാറുന്നു ദയവായി ഈ ഉദാഹരണം പരിശീലിക്കുക ഈ കോൺസെൻട്രിക് സർക്കിൾ രീതി ചെയ്ത ശേഷം നമ്മൾ ഒബ്ലോങ് രീതിയുമായി പോകും ഈ ഒബ്ലോങ് രീതിയിൽ 100 മില്ലീമീറ്റർ ഉള്ള വലിയ അക്ഷത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ഒരു ദീർഘചതുരം നിർമ്മിക്കുന്നു ഇവിടെ ഈ അണ്ഡവൃത്തത്തിന്റെ ചെറിയ അക്ഷം 50 മില്ലീമീറ്ററാണ് അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായി എബി രേഖയും സിഡി രേഖയും പരസ്പരം ഓർത്തോഗണലായി വരയ്ക്കുക തുടർന്ന് ഒരു ചതുരാകൃതിയിലുള്ള ബോക്സ് നിർമ്മിക്കുക അവിടെ EF ന്റെ നീളം AB രേഖക്ക് തുല്യമായിരിക്കണം AO AE എന്നിവ തുല്യ പോയിന്റുകളായി വിഭജിക്കുക വിഭജിക്കുന്ന പോയിന്റ് O ആണ് ഈ പോയിന്റ് A ഈ പോയിന്റുകൾ B C D എന്നിവയാണ് ദീർഘചതുരത്തിന് ഈ പോയിന്റുകൾ H G F E എന്നിവയാണ് ഇപ്പോൾ AO AE എന്നിവ തുല്യ സംഖ്യകളായി വിഭജിക്കുക AO ഇതാണ് AE ഇതാണ് ദീർഘചതുരത്തിന്റെ ഈ ക്വാഡ്രന്റിനെ തുല്യ സംഖ്യകളായി വിഭജിക്കുക ഉദാഹരണത്തിന് 5 ആയിട്ട് വിഭജിക്കാം നമുക്ക് 50 പോയിന്റുകൾ ഉണ്ടെങ്കിൽ കൃത്യത മികച്ചതായിരിക്കും നമുക്ക് വളരെ മിനുസമാർന്ന കർവ് ഉണ്ടാകും നമുക്ക് പോയിന്റുകളുടെ എണ്ണം കുറവാണെങ്കിൽ അത് വളരെ മിനുസമാർന്ന കർവ് ആയിരിക്കില്ല അത് മാത്രമാണ് വ്യത്യാസം അതിനാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് AO യെ 5 ഭാഗങ്ങളായി തുല്യമായി വിഭജിക്കുക എന്നതാണ് AO AE എന്നിവ തുല്യ സംഖ്യകളായി വിഭജിച്ചതിന് ശേഷം പോയിന്റുകൾക്ക് പേര് നൽകുക നമുക്ക് 5 എന്ന് പറയാം ഡിവിഷനുകളെ 1 2 3 4 എന്ന് അക്കമിടുക അതിനാൽ ഡിവിഷനുകളിൽ എ ആദ്യ പോയിന്റാണ് ഇത് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് എട്ടാം പോയിന്റ് എന്നിവയാണ് അതുപോലെ തിരശ്ചീന അക്ഷത്തിൽ 1' 2' 3' 4' എന്നിവ ലഭിക്കുന്നു ഇത് ചെയ്തുകഴിഞ്ഞാൽ 1 2 3 പോയിന്റുകളെ സി യിൽ ചേർക്കുക സി ഇതാണ് വശത്തെ അക്ഷത്തിൽ 1 2 3 4 ലഭിക്കുന്നു അതിനാൽ അവിടെ നിന്ന് രേഖകൾ ഓരോന്നായി വരയ്ക്കുക ഇത് ആദ്യത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് നാലാമത്തേത് സി യിൽ നിന്ന് നമ്മൾ 1 2 3 4 പോയിന്റുകൾ ബന്ധിപ്പിക്കാൻ പോകുന്നു അത് ചെയ്തുകഴിഞ്ഞാൽ 1' ഡി യിലേക്ക് ചേർക്കുക അതിനാൽ ഡി നമ്മൾ 1' 2' ൽ ചേർക്കാൻ പോകുന്നു അതിനാൽ സി ഈ ഭാഗത്തും ഡി മറുവശത്തും ആണ് ഈ ലംബ അക്ഷത്തിലേക്ക് സി യെ ചേർക്കുക തിരശ്ചീന അക്ഷത്തിലേക്ക് ഡി യെ ചേർക്കുക അതിനാൽ നമ്മൾ 1' 2' 3 4' ലഭിക്കുന്ന അവസ്ഥയിലായിരിക്കും അതിനാൽ ഈ വരികളെല്ലാം വിപുലീകരിക്കുക നമുക്ക് പോയിന്റ് സി യും 1 ഉം ചേർക്കാം അത് ആ പോയിന്റ് വരെ പോകുന്നു നമ്മൾ ഡി 1 നോട് ചേർക്കുമ്പോൾ ഈ രേഖ എല്ലാ വഴികളിലൂടെയും പോയി ആ ഘട്ടത്തിൽ വിഭജിക്കുകയും ഒടുവിൽ എല്ലാ വഴികളിലൂടെയും പോകുകയും ചെയ്യുന്നു അതിനാൽ അത് വിഭജിക്കുമ്പോൾ നമ്മൾ അത് നിർത്തും നമുക്ക് ആ പോയിന്റിനെ പി 1 എന്ന് വിളിക്കാം അതുപോലെ സി യിൽ നിന്നും ലംബ അക്ഷത്തിലേക്ക് ഒരു രേഖ വരയ്ക്കുക അത് ചെയ്തുകഴിഞ്ഞാൽ പോയിന്റ് ഡി യിൽ കൂടി പോവുകയും അത് വിഭജിക്കാൻ പോകുന്നിടത്ത് അത് നിറുത്തുകയും ചെയ്യുന്നു അതിനാൽ വരിവരിയായി നമ്മൾ പോയിന്റുകൾ തിരിച്ചറിഞ്ഞ് പി 2 പി 3 പി 4 P2 P3 P4 പോയിന്റുകൾ സൂചിപ്പിക്കുന്നു അതിനാൽ എ യിൽ നിന്ന് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് ഒരു സുഗമമായ ഫ്രീഹാൻഡ് കർവ് വരയ്ക്കാം ഈ അണ്ഡവൃത്തത്തിന്റെ ഒരു ക്വാഡ്രന്റ് നിർമ്മിക്കാൻ കഴിയുന്ന രീതിയാണിത് ഇത് ചെയ്തുകഴിഞ്ഞാൽ അതേ നടപടിക്രമം സി യിൽ നിന്ന് ബി എഫ് ലൈനിലേക്ക് ആവർത്തിക്കണം നമ്മൾ ഇതിനെ 1 2 3 4 ആയി വിഭജിക്കും സി യിൽ നിന്ന് 1 വഴി കടന്നുപോകേണ്ട ഒരു വരി വരയ്ക്കുക അതുപോലെ ബി പോയിന്റിൽ നിന്ന് 1 വഴി കടന്നുപോകുന്ന ഒരു രേഖ വരയ്ക്കുക അത് വിഭജിക്കുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് ലഭിക്കും അതുപോലെ തന്നെ 2 ൽ കൂടി കടന്നുപോകുന്ന ഡി യിൽ നിന്ന് ഒരു രേഖ വരയ്ക്കുക പി 2 വിഭജിക്കുന്നിടത്തെല്ലാം 2 ലൂടെ കടന്നുപോകുന്നു സി യിൽ നിന്ന് ഒരു രേഖ വരയ്ക്കുക ഇങ്ങനെ മുകളിലെ ഭാഗങ്ങൾ തിരിച്ചറിയുക അത് നിർമ്മിക്കാൻ നമുക്ക് കഴിയും ഈ ഭാഗത്തിനും ഇതേ നടപടിക്രമം ആവർത്തിക്കേണ്ടതുണ്ട് അതിനാൽ ഈ പോയിന്റുകൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയും ഈ കർവ് ഇങ്ങനെ നിർമ്മിക്കുക ഇതിന്റെ ഒരു ഭാഗം നമുക്ക് ഹ്രസ്വമായി നോക്കാം അതിനർത്ഥം നമ്മൾ ഈ ചതുരാകൃതിയിലുള്ള ബോക്സ് വരയ്ക്കുകയും തുടർന്ന് ദീർഘവൃത്തത്തിന്റെ നാലിലൊന്ന് ക്വാഡ്രന്റ് നിർമ്മിക്കുകയും ചെയ്യും നമുക്ക് അത് ചെയ്യാം ഒന്നാമതായി ഇത് 100 മില്ലീമീറ്ററിലും 50 മില്ലീമീറ്ററിലുമാണ് നമ്മൾ ഇത് നിർമ്മിക്കേണ്ടത് അതിനാൽ പേപ്പറിൽ 100 മില്ലീമീറ്റർ അടയാളപ്പെടുത്താം ഇതാണ് പോയിന്റുകൾ തുടർന്ന് 50 മില്ലീമീറ്റർ അടയാളപ്പെടുത്തുക ഒരു ലംബ ബൈസെക്ടർ വരയ്ക്കുക ഇത് 50 മില്ലീമീറ്റർ ആയതിനാൽ നമുക്ക് ഈ ഗ്രാഫ് ഷീറ്റിൽ 25 മില്ലീമീറ്റർ കണ്ടെത്തുന്നത് താരതമ്യേന എളുപ്പമാണ് 25 മധ്യത്തിലായിരിക്കും അത് ലഭിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു ലംബ രേഖ നിർമ്മിക്കാൻ കഴിയും അതിനാൽ ഇത് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം നിർമ്മിക്കാൻ കഴിയും അതിനാൽ ഈ ഗ്രാഫ് ഷീറ്റിൽ നമ്മൾ അത് നിർമ്മിക്കുന്നു അതുപോലെ ഗ്രാഫ് ഷീറ്റിൽ ഇത് താഴേയ്ക്ക് നിർമ്മിക്കുക ഈ ദൂരം തുല്യമായിരിക്കണം അതിനാൽ ഇവിടെ നിന്ന് നമുക്ക് ഈ വരികൾ അടയാളപ്പെടുത്തി ചേർക്കാം അതിനാൽ നമ്മൾ ഒരു ദീർഘചതുരം നിർമ്മിച്ചു നമുക്ക് അതിനെ എ ബി ഇ എഫ് സി ഒ ഡി എച്ച് ജി A B E F C O D H G എന്ന് പേര് നൽകാം അത് ചെയ്തുകഴിഞ്ഞാൽ ഇതിനെ തുല്യമായ ഡിവിഷനുകളായി വിഭജിക്കണം ഇതിനകം നമുക്ക് ഒരു ഗ്രിഡ് നെറ്റ്വർക്ക് ഉണ്ട് അതിനാൽ അതിനെ 1 2 3 4 പോലുള്ള തുല്യ ഭാഗങ്ങളായി വിഭജിക്കാം അതിനാൽ നമുക്ക് 1 2 3 4 5 തുല്യ ഭാഗങ്ങളാണുള്ളത് എന്നാൽ ഇപ്പോൾ നമുക്ക് ഇവ 5 തുല്യ ഭാഗങ്ങളായി വിഭജിക്കാൻ കഴിയില്ല അതിനാൽ അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഒരു രേഖ വരയ്ക്കുക എന്നതാണ് ഈ രേഖയിൽ 1 2 3 4 5 പോലുള്ള 5 തുല്യ ഡിവിഷനുകൾ കണ്ടെത്താൻ കോമ്പസ് ഉപയോഗിക്കുക അത് ചെയ്തുകഴിഞ്ഞാൽ ഈ ഡിവിഷനുകൾ തമ്മിൽ ചേർക്കുക രേഖ ആ രേഖക്ക് സമാന്തരമായിരിക്കണം അതിനാൽ ആ രേഖക്ക് സമാന്തരമായി രേഖ വരയ്ക്കുന്നതിന് നമുക്ക് ഒരു നോർമൽ വരയ്ക്കാം നമ്മൾ ഇവിടെ ഒരു ഡ്രാഫ്റ്റർ ഉപയോഗിക്കാത്തതിനാൽ നമുക്ക് മികച്ച പിന്തുണ ലഭിക്കും അതിനാൽ ഈ ദിശയിലേക്ക് പോകുന്നത് നമുക്ക് എളുപ്പമാണ് നമുക്ക് 2 3 4 5 ലഭിക്കുന്നു അതിനാൽ നമുക്ക് 1 2 3 4 5 പോയിന്റുകൾ ലഭിക്കുന്ന രീതിയാണിത് ഇതിന് പോയിന്റുകൾ 1 2 3 4 എന്ന് നാമകരണം ചെയ്യാം അതുപോലെ ഈ പോയിന്റുകൾ 1 2 3 4 ആണ് ഇപ്പോൾ നമ്മൾ സി 4 ലേക്കും സി ലേക്കും ബന്ധിപ്പിക്കണം അതിനാൽ പോയിന്റ് സി യെ ആദ്യ പോയിന്റിലേക്ക് ബന്ധിപ്പിക്കാം അതിനാൽ ആദ്യം സി മുതൽ 1 വരെ ചേർക്കുക അതുപോലെ തന്നെ സി പോയിന്റുകൾ 2 3 4 എന്നിവയിലേക്ക് ചേർക്കുക അതുപോലെ ഡി യിൽ നിന്ന് നമ്മൾ പോയിന്റുകൾ 2' 3' 4 ലേക്ക് ചേർക്കണം ഇപ്പോൾ പോയിന്റുകൾ അടയാളപ്പെടുത്തുക ആദ്യ പോയിന്റ് ഇതാണ് രണ്ടാമത്തേത് ഇതാണ് അതുപോലെ മൂന്നാമത് നാലാമത് അഞ്ചാമത് അങ്ങനെ അതിനാൽ നമ്മുടെ അണ്ഡവൃത്തം ഈ പോയിന്റുകളിലൂടെ കടന്നുപോകുന്നു ഒരാൾക്ക് അണ്ഡവൃത്തം നിർമ്മിക്കാനുള്ള മാർഗ്ഗമാണിത് കൂടാതെ ഈ ഭാഗം ഒരു തുല്യ സംഖ്യകളുടെ വിഭജനം വഴി നിർമ്മിക്കേണ്ടതുണ്ട് അതുപോലെ ഇവയുടെ വിഭജനം വഴി ഈ പോയിന്റ് നിർമ്മിക്കേണ്ടതുണ്ട് അതിലൂടെ ഒരാൾക്ക് അണ്ഡവൃത്തം നിർമിക്കാനാകും ഈ രീതിയെ നമ്മൾ ദീർഘചതുരം രീതി അല്ലെങ്കിൽ ഒബ്ലോങ് രീതി എന്ന് വിളിക്കുന്നു നമ്മൾ ഈ പി 1 പി 2 പി 3 പി 4 എന്നിവയും സി വഴി പി 1 പി 2 പി 3 പി 4 എന്നിവയും ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഈ അണ്ഡവൃത്തം ലഭിക്കും അതിനാൽ ഈ പ്രഭാഷണത്തിൽ കോൺസെൻട്രിക് സർക്കിൾ രീതിയെക്കുറിച്ചും ഒബ്ലോങ് രീതിയെക്കുറിച്ചും നമ്മൾ പഠിച്ചു അടുത്ത പ്രഭാഷണത്തിൽ ഒരു അണ്ഡവൃത്തം നിർമ്മിക്കുന്നതിനുള്ള ആർക്ക് ഓഫ് സർക്കിൾ രീതിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കും